തിരികെ സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 37 ആണ് സിസ്റ്റം ഓഫ് ലീനിയർ സമവാക്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും പ്രത്യേകിച്ചും ഇന്ന് സൊല്യൂഷൻ ടെക്നിക്കുകൾക്കായി നമ്മൾ അന്വേഷിക്കും ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ചിട്ടയായ ഈ എലിമിനേഷൻ വിദ്യ ഉപയോഗിച്ച് എങ്ങനെ സൊല്യൂഷൻ നേടാമെന്ന് നമ്മൾ കാണും അതിന്റെ സഹായത്തോടെ സൊലൂഷന്റെ കൺസിസ്റ്റൻസി യെക്കുറിച്ചും അതിനർത്ഥം സൊലൂഷന്റെ നിലനിൽപ്പിനെക്കുറിച്ചും നിലനിൽപ്പില്ലായ്മയെക്കുറിച്ചും സംസാരിക്കും ഈ ടെക്നിക്ന്റെ സഹായത്തോടെ നമുക്ക് സിസ്റ്റത്തിന് ഒരു പരിഹാരമുണ്ടോയെന്നും അത് യൂണിക് ആണോ എന്നും അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരമില്ലെന്നും തിരിച്ചറിയാൻ കഴിയും ഈ തിരിച്ചറിയലുകളെല്ലാം ഈ ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് പരിശോധിക്കാനും കഴിയും ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിൻറെ സൊല്യൂഷൻ മേത്തടുകൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പരിചിതമായ ഡിറ്റർമിനന്റുകളുടെ മെത്തേഡ് പോലെയുള്ള മറ്റ് മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ അതിനെ ക്രാമേഴ്സ് റൂൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഡിറ്റർമിനന്റിന്റെ സഹായത്തോടെ നമുക്ക് പരിഹാരം ലഭിക്കുന്നു യൂനിക് ആയ ഒരു സൊലൂഷൻ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉള്ളപ്പോൾ ഇത് സാധ്യമാണ് സമവാക്യങ്ങളുടെ എണ്ണം അൺനോണ്കളുടെ എണ്ണത്തിന് തുല്യമായ സിസ്റ്റത്തിന് ഒരു യൂനിക് ആയ പരിഹാരവുമുണ്ട് ഈ ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ച് സമവാക്യങ്ങളുടെ ഒരു ചെറിയ സിസ്റ്റത്തിന്റെ സൊലൂഷൻ നേടാൻ ഇത് സാധ്യമാണ് മാട്രിക്സ് ഇൻവെർഷൻ മെത്തേഡും നമ്മളുടെ പക്കലുണ്ട് മാട്രിക്സിന്റെ ഇൻവേഴ്സ് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് Axb എന്ന സിസ്റ്റം പരിഹരിക്കാനാകും അതിനാൽ ഈ Axb ൽ നിന്ന് എന്ന് എഴുതാം ഒരിക്കൽ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ ഈ b കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് x ലഭിക്കും അതിനാൽ ഒരു മാട്രിക്സിന്റെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിന്റെ സൊലൂഷൻ എളുപ്പത്തിൽ എഴുതാം ഇപ്പോൾ ഇത് കുറച്ചുകൂടി പൊതുവായ ഒരു കേസാണ് ഈ ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡിനെക്കുറിച്ചു നമ്മൾ സംസാരിക്കും സിസ്റ്റത്തിന് നോൺ യൂനിക് സൊലൂഷൻ ആവുമ്പോൾ അഥവാ അനന്തമായി നിരവധി സൊലൂഷൻഉകൾ ഉണ്ടാകുമ്പോഴുള്ള കേസുകളും നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യും അതിനാൽ ഇവയെല്ലാം ഈ ഗ്വോസ്സ് എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ച് നമുക്ക് മനസിലാക്കാൻ കഴിയും കൂടാതെ നമുക്ക് ഐട്ടെറേഷൻ മെത്തേഡ്കളുണ്ട് അത് ജക്കോബി മെത്തേഡും ഗ്വോസ്സ് സീഡൽ മെത്തേഡും ആണ് നമുക്ക് ശരിക്കും വളരെ വലിയ ഒരു സമവാക്യ സിസ്റ്റം ഉള്ളപ്പോൾ അത് പരിഹരിക്കാനുള്ളതാണ് ഇവ ഡിറ്റർമിനന്റ് മെത്തേഡ് ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡ് ഇൻവെർഷൻ മെത്തേഡ് എന്നിവ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നു എങ്കിൽ നമ്മൾ ഈ ആവർത്തന മെത്തേഡ്കൾ എടുക്കുന്നു അതിനാൽ ആദ്യത്തെ മൂന്ന് മെത്തേഡ്കൾ നേരിട്ടുള്ള മെത്തേഡ്കളുടെ വിഭാഗത്തിൽ പെടുന്നു ഈ മെത്തേഡ്കൾ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ കൃത്യമായ സൊലൂഷൻ നമുക്ക് ലഭിക്കുന്നുവെന്നാണ് നേരിട്ടുള്ള മെത്തേഡ്കൾ അർത്ഥമാക്കുന്നത് എന്നാൽ ഇവിടെ ഐറ്ററേറ്റിവ് അഥവാ ആവർത്തന മെത്തേഡ്കൾ സമവാക്യത്തിന്റെ ഏകദേശ പരിഹാരം നൽകുന്നു അതിനാൽ ഈ നേരിട്ടുള്ള മെത്തേഡ്കളുടെ വിഭാഗത്തിൽ വളരെ സാധാരണമായ ഈ ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡിനെക്കുറിച്ച് നമ്മൾ ഈ ലെക്ച്ചറിൽ സംസാരിക്കും കൂടാതെ എലമെന്ററി റോ ഓപ്പറേഷൻ ടെക്നിക്കുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും എലമെന്ററി റോ ഓപ്പറേഷൻ എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് ഒരു മാട്രിക്സിന്റെ i th j th വരികൾ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം സമവാക്യങ്ങളുടെ സിസ്റ്റത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിനായി നമ്മൾ മാട്രിക്സ് A എഴുതുന്നു ഈ റോകൾ മാറ്റുക എന്നാൽ രണ്ടാമത്തെ സമവാക്യം ആദ്യത്തെ സ്ഥാനത്തും ആദ്യത്തെ സമവാക്യം രണ്ടാം സ്ഥാനത്തും എഴുതുന്നു എന്നതാണ് അതിനാൽ ഇതിന് സൊല്യൂഷനുമായി യാതൊരു ബന്ധവുമില്ല കൂടാതെ എലമെന്ററി റോ ഓപ്പറേഷൻറെ അടിസ്ഥാനത്തിൽ മാട്രിക്സുമായി നമ്മൾ ചെയ്യുന്നത് മാട്രിക്സിന്റെ രണ്ട് വരികളും പരസ്പരം മാറ്റുന്നു എന്നതാണ് രണ്ടാമത്തേത് നമുക്ക് i th റോ യെ അർത്ഥമാക്കുന്നത് ഏത് റോയെയും ഒരു നോൺ സീറോ നമ്പർ λ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കുന്നത് സിസ്റ്റത്തിൽ λ കൊണ്ട് ഗുണിച്ച സമവാക്യങ്ങളുണ്ടെന്ന് ആണ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ വീണ്ടും അതേ റോ ഓപ്പറേഷൻ ആയി തുടരും അതിനാൽ മെട്രിക്സുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചത് എന്ന റോ ഓപ്പറേഷനെക്കുറിച്ചാണ് ഇപ്പോൾ λ ടൈംസ് എന്ന പോലെയാണ് എന്ന സമവാക്യത്തിലേക്ക് നമ്മൾ പൂജ്യമല്ലാത്ത λ എന്ന ഒരു സംഖ്യയുമായി ഗുണിച്ചു റോയുടെ λ ടൈംസ് റോയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഓപ്പറേഷൻ ഇവിടെ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമ്മൾ j th റോയെ ഒരു സംഖ്യ λ കൊണ്ട് ഗുണിക്കും പൂജ്യമല്ലാത്ത നമ്പർ λ കാരണം λ 0 ആണെങ്കിൽ നമ്മൾ ഈ റോയിലേക്ക് ഒന്നും ചേർക്കുന്നില്ല അതിനാൽ ഈ j th റോയുടെ λ ടൈംസ് നമ്മൾ i th റോയിലേക്ക് ചേർക്കും കൂടാതെ ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ റോ എന്നായി മാറിയിരിക്കുന്നു അതിനാൽ നമ്മൾ ലേക്ക് ചേർത്തു R എന്നാൽ റോ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഈ i th റോയിൽ നമ്മൾ ഈ j th റോയുടെ λ ടൈംസ് കൂട്ടിച്ചേർത്തു അങ്ങനെ പുതിയ വരുന്നു ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡിനായി നമ്മൾ ഉപയോഗിക്കുന്ന എലിമെന്ററി റോ ഓപ്പറേഷനുകൾ ഇവയാണ് ലളിതമായ ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ഇത് വിശദീകരിക്കാം തുടർന്ന് അടുത്ത ലെക്ച്ചറിൽ കൂടുതൽ പൊതുവായ പ്രശ്നങ്ങളിലേക്ക് പോകാം അതിനാൽ ഇവിടെ നമ്മൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കുന്നു നമുക്ക് മൂന്ന് സമവാക്യങ്ങളുണ്ട് ആദ്യം ഈ സമവാക്യങ്ങൾ മാട്രിക്സ് രൂപത്തിൽ എഴുതുക അവിടെ സമവാക്യങ്ങളുടെ വലതുഭാഗത്തുള്ള 4 7 9 എന്നിവ നമ്മൾ ഓഗ്മെന്റ് ചെയ്യും അതായത് കോയിഫിഷ്യന്റ് മാട്രിക്സിലേക്ക് ചേർത്ത് എഴുതുന്നു അതിനാൽ ഇവിടെ വലതുവശത്ത് ഞാൻ അടിസ്ഥാനപരമായി ഗ്വോസ്സ് എലിമിനേഷൻ മെത്തേഡ്യിലും ഇടത് വശത്ത് നമ്മൾ സമവാക്യങ്ങളുമായി നേരിട്ടും ഇത് ചെയ്യും അതിനാൽ ഈ ഗ്വോസ്സ് എലിമിനേഷൻ വളരെ സങ്കീർണ്ണമായ ഒന്നല്ലെന്ന് മനസിലാക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് ചിട്ടയായ മെത്തേഡ്ൽ വേരിയബിളുകളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഇവിടെ നമുക്ക് ആദ്യ ഘട്ടം ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംയോജിത മാട്രിക്സ് എഴുതേണ്ടതുണ്ട് അതിനാൽ കോയിഫിഫിഷ്യന്റ് മാട്രിക്സ് A ഉണ്ട് സമവാക്യങ്ങളുടെ സിസ്റ്റം Axb ഫോമിലേക്ക് എഴുതിയാൽ മാട്രിക്സ് എന്നത് ഈ കേസിൽ എന്ന് ആകാൻ പോകുന്നു ഈ മാട്രിക്സ് A മാട്രിക്സ് b എന്നീ രണ്ട് മാട്രിക്സ്കൾക്ക് അടിസ്ഥാനപരമായി തന്നിരിക്കുന്ന സമവാക്യങ്ങളുടെ എല്ലാ വിവരങ്ങളും ഉണ്ട് കൂടാതെ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുവെച്ചാൽ നമ്മൾ ഇവിടെ മാട്രിക്സ് A ശേഖരിക്കുന്നു ഇത് കൃത്യമായി ആണ് കൂടാതെ ഈ ബി ചേർത്ത് നമ്മൾ അതേ മാട്രിക്സ് ഉപയോഗിച്ച് ഒരു കോളം ഇവിടെ വർദ്ധിപ്പിച്ചു അതിനാൽ ഈ മാട്രിക്സിനെ നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടത് വശത്ത് സമവാക്യത്തോടുകൂടി എല്ലാം ചെയ്യുന്നു തുടർന്ന് നമ്മൾ മാട്രിക്സിന്റെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ഗ്വോസ്സ് എലിമിനേഷൻ ടെക്നിക് എന്ന് വിളിക്കുകയും ചെയ്യും അതിനാൽ ഈ സമവാക്യ നമ്പർ 1 ന്റെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ വേരിയബിളിനെ 2 എന്ന സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സമവാക്യം 1 നെ 2 കൊണ്ട് ഗുണിച്ചതിനുശേഷം കിട്ടുന്നത് സമവാക്യ നമ്പർ 2 ൽ നിന്ന് കുറയ്ക്കുക വേരിയബിളിനെ 3 എന്ന സമവാക്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആയി 3 എന്ന സമവാക്യത്തിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് എഴുതാവുന്നവ എന്നിങ്ങനെയാണ് മാട്രിക്സ് രൂപത്തിൽ എന്ന് എഴുതാം ശേഷം 3 എന്ന സമവാക്യത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതിനായി പുതുതായി കിട്ടിയ സിസ്റ്റത്തിലെ സമവാക്യം 3 യിൽനിന്ന് സമവാക്യം 2 കുറയ്ക്കുന്നു അതായത് മാട്രിക്സ് രൂപത്തിൽ എന്ന് എഴുതാം അടുത്തത് നമ്മൾക്ക് ഇവിടെ റെഡ്യൂസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഓഗ്മെന്റഡ് മാട്രിക്സ് ഉണ്ട് ഗ്വോസ്സ് എലിമിനേഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഘട്ടമാണിത് ഓഗ്മെന്റഡ് മാട്രിക്സിൽ നിന്ന് ആരംഭിച്ച് ഈ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു കിട്ടുന്ന മാട്രിക്സിനെ നമ്മൾ എക്കലോൺ ഫോം എന്ന് വിളിക്കുന്നു അടുത്ത ലെക്ച്ചറിൽ കൃത്യമായി എക്കലോൺ ഫോം എന്താണെന്ന് നമ്മൾ ചർച്ച തുടരും നമുക്ക് ഇവിടെയുള്ളത് ഇപ്പോൾ നമുക്ക് ഈ കേസിൽ എക്കലോൺ ഫോം ലഭിച്ചോ എന്ന് നോക്കണം അതിനാൽ എല്ലായ്പ്പോഴും ഈ എക്കലോൺ ഫോമിനുള്ള ഒരു ഘടന സ്റ്റെപ് പോലെ ആയിരിക്കും ആദ്യ വരിയിൽ ആദ്യം പൂജ്യമല്ലാത്ത എന്തെങ്കിലും ശേഷം എല്ലാം പൂജ്യമാണ് പിന്നെ രണ്ടാമത്തെ വരി ആദ്യം പൂജ്യവും ശേഷം പൂജ്യം അല്ലാത്ത സംഖ്യ മൂന്നാമത്തെ വരിയിൽ ആദ്യം രണ്ടു പൂജ്യവും ശേഷം പൂജ്യം അല്ലാത്ത സംഖ്യ സ്വാഭാവികമായും പൂജ്യം അല്ലാത്ത ആദ്യത്തെ സംഖ്യയുടെ ഇടത് വശത്ത് എല്ലാം പൂജ്യം ആയിരിക്കും ഈ എക്കലോൺ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ സൊലൂഷൻ വളരെ എളുപ്പത്തിൽ ലഭിക്കും അതിനാൽ ഇപ്പോൾ സൊലൂഷൻ എങ്ങനെ നേടാമെന്ന് ആദ്യം സമവാക്യങ്ങളോടെ നോക്കാം അവസാന സമവാക്യത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് എഴുതാൻ സാധിക്കുന്നു ഇത് രണ്ടാമത്തെ സമവാക്യത്തിൽ ഉപയോഗിച്ചാൽ ലഭിക്കുന്നു ഇവ രണ്ടും ഒന്നാമത്തെ സമവാക്യത്തിൽ ഉപയോഗിച്ചാൽ ലഭിക്കുന്നു അങ്ങനെ സൊലൂഷൻ ഗ്വോസ്സ് എലിമിനേഷന്റെ കാര്യത്തിൽ നമ്മൾ ഇതിനെ ബാക്ക് സബ്സ്റ്റിറ്റുഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ഘട്ടമാണ് ആദ്യ ഘട്ടം ഓഗ്മെന്റഡ് മാട്രിക്സിനായി കോയിഫിഷ്യന്റ് മാട്രിക്സിലേക്ക് വലതുവശത്തെ വെക്ടർ ഇടുകയായിരുന്നു രണ്ടാമത്തേത് ഓപ്പറേഷൻസ് നടത്തി എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നതാണ് ഗ്വോസ്സ് എലിമിനേഷന്റെ അവസാന ഘട്ടം ബാക്ക് സബ്സ്റ്റിറ്റുഷൻലേക്ക് പോവുക എന്നതാണ് അവിടെ നമുക്ക് സിസ്റ്റത്തിന്റെ പരിഹാരം ലഭിക്കും അതിനാൽ അടിയിൽ നിന്ന് ബാക്ക് സബ്സ്റ്റിറ്റുഷൻ നമ്മൾ ആരംഭിക്കും അവസാന സമവാക്യം എന്ന സമവാക്യം ആണ് ഇതിന് അനുസൃതമായി യഥാർത്ഥത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ഇടതുവശത്ത് നൽകിയിരിക്കുന്ന സമവാക്യങ്ങളുടെ സിസ്റ്റം ഉണ്ടെന്ന് ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ അതിനർത്ഥം ഇവിടെ എന്നാണ് അപ്പോൾ ഈ അറിയപ്പെടുന്നു ഇതിൽ നിന്ന് നമ്മൾ പടിപടിയായി പോകും ഇവിടെ ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് വേരിയബിൾ ലഭിക്കും ആദ്യ സമവാക്യത്തിൽ നിന്ന് ലഭിക്കുന്നു അതിനാൽ സമവാക്യത്തിന്റെ ഈ എക്കലോൺ രൂപം ലഭിച്ചുകഴിഞ്ഞാൽ ബാക്ക് സബ്സ്റ്റിറ്റുഷനിൽ നിന്ന് സൊലൂഷൻ നമുക്ക് ലഭിക്കും ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്ത ലെക്ച്ചറിൽ നമ്മൾ അവ വീണ്ടും പര്യവേക്ഷണം ചെയ്യും നമുക്ക് സിസ്റ്റത്തിന്റെ 1 1 2 എന്ന ഒരു പരിഹാരം ലഭിച്ചുവെന്ന് നമ്മൾ നിരീക്ഷിച്ചതാണ് തീർച്ചയായും ഇത് സിസ്റ്റത്തിന്റെ യൂനിക് ആയ സൊല്യൂഷൻ ആണ് മറ്റ് സൊല്യൂഷൻ സാധ്യതകൾ നേരിട്ട് ലഭിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ആദ്യ വരിയിലോ ഈ ആദ്യ നിരയിലോ ഉള്ള ഈ നമ്പറുകളെ പിവറ്റ് എലെമെന്റ്സ് എന്ന് വിളിക്കുന്നു പിവറ്റ് എലമെന്റ് എല്ലായ്പ്പോഴും പൂജ്യമല്ലാത്ത എലമെന്റ് ആയിരിക്കും ഇതിന് താഴെ എല്ലാം പൂജ്യമായിരിക്കണം ഇപ്പോൾ അടുത്ത വരിയിലേക്കോ അടുത്ത നിരയിലേക്കോ വരുമ്പോൾ ഈ നമ്പർ വീണ്ടും പിവറ്റ് ആണ് കാരണം ഇവിടെ എല്ലാം പൂജ്യവും ഇടത് വശം പൂജ്യവും ആണ് കൂടാതെ ഈ സബ് മാട്രിക്സിൽ എല്ലാം പൂജ്യമാണ് അടുത്തതിലേക്ക് പോകുന്നത് ഇതും ഒരു പിവറ്റ് എലമെന്റ് ആണ് കാരണം ഇത് നോൺ സീറോ ആയതിനാൽ എല്ലാം പൂജ്യമായി അവശേഷിക്കുന്നു മാട്രിക്സ് 3x3 ആയതിനാൽ ഇവിടെ ഒന്നുമില്ല അതിനാൽ അത്തരം നോൺ സീറോ എലെമെന്റ്കളെ പിവറ്റ് എലെമെന്റ്കൾ എന്ന് വിളിക്കും കാരണം അവ സൊലൂഷൻറെ സ്ഥിരതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അതായത് സൊലൂഷൻറെ നിലനിൽപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇവിടെ പിവറ്റുകളുടെ എണ്ണം എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് എത്ര പിവറ്റുകൾ ഉണ്ട് നമ്മൾക്ക് ഒരു പിവറ്റ് ഉണ്ട് നമ്മൾക്ക് രണ്ട് പിവറ്റുകൾ ഉണ്ട് നമ്മൾക്ക് മൂന്ന് പിവറ്റുകൾ ഉണ്ട് ഈ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നമ്മളുടെ സിസ്റ്റത്തിൽ മൂന്ന് പിവറ്റുകൾ ഉണ്ട് അതിനാൽ ഇവിടെ പിവറ്റുകളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് നമുക്ക് ഇവിടെ എത്ര അൺനോണുകളുണ്ട് മൂന്ന് അൺനോണുകൾ അതിനാൽ ഈ പിവറ്റുകളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അപ്പോൾ നമുക്ക് കൃത്യമായി യൂനിക്കായ ഒരു സൊലൂഷൻ ഉണ്ട് ഇത് യൂനിക് സൊലൂഷൻന്റെ കാര്യമാണ് കാരണം നമ്മളുടെ പിവറ്റുകളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഓരോ നിരയും സമാന്തരമായി ഓരോ നിരയും ഒരു വേരിയബിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ആദ്യത്തേത് മായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് മായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തേത് മായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം തന്നിരിക്കുന്ന സിസ്റ്റത്തെ എന്ന് എഴുതാമെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇവിടെ 1 0 0 എന്ന കോളത്തെ കൊണ്ട് ഗുണിക്കും രണ്ടാമത്തേത് കൊണ്ട് ഗുണിക്കും മൂന്നാമത്തെത് കൊണ്ട് ഗുണിക്കും അതിനാൽ ഈ ഫസ്റ്റ് കോളം ഇവിടെ മായി ബന്ധപ്പെട്ടിരിക്കുന്നു സെക്കൻഡ് കോളം മായി ബന്ധപ്പെട്ടിരിക്കുന്നു തേർഡ് കോളം മായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഓരോ നിരയ്ക്കും ഒരു പിവറ്റ് ഉണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ ഇത് സ്ഥാപിക്കാം ഓരോ കോളത്തിനും ഒരു പിവറ്റ് ഉണ്ട് എങ്കിൽ ആ കേസിൽ തീർച്ചയായും നമ്മൾക്ക് യൂനിക്കായ സൊല്യൂഷൻ ലഭിക്കുന്നു അതിനാൽ നമ്മൾ പിവറ്റുകളെക്കുറിച്ച് കുറച്ചുകൂടി പര്യവേക്ഷണം നടത്തും ഇത് ഇവിടെ ഈ ആശയത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു ആമുഖം മാത്രമാണ് മാത്രമല്ല നമ്മൾ ഈ 3x3 മാട്രിക്സിനെ മാത്രം പരിഗണിക്കുന്നു അതിനാൽ അടുത്ത ലെക്ച്ചറിൽ ഈ പിവറ്റുകളെക്കുറിച്ചും എക്കലോൺ രൂപത്തെക്കുറിച്ചും കൂടുതൽ സംസാരിക്കും അതിനാൽ ഇപ്പോൾ ഉദാഹരണ നമ്പർ 2 ലേക്ക് പോകുന്നു നമ്മൾ ഇപ്പോൾ ഉദാഹരണം മാറ്റി എന്ന ഫോമിൽ ഈ ഓഗ്മെന്റഡ് മാട്രിക്സ് എടുക്കുന്നു കൂടാതെ മാട്രിക്സിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ നമ്മൾ മുമ്പ് നടത്തിയ അതേ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തുകൊണ്ട് ആദ്യ വരിയിൽ ആദ്യം ഉള്ള 1 എന്ന എലിമെന്ററിന്റെ താഴെയുള്ളവ 0 ആക്കാൻ ശ്രമിക്കും അതിനർത്ഥം ഈ സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോയുടെ ഇരട്ടി കുറയ്ക്കണം അതിനാൽ ഇത് കൃത്യമായി ഇവിടെ ഉം ഉം എഴുതിയിരിക്കുന്നു

അതിനാൽ ഈ എക്കലോൺ ഫോമിലേക്ക് ചുരുക്കുന്നതിലൂടെ തന്നിരിക്കുന്ന സിസ്റ്റം സ്ഥിരതയ്ക്ക് പൊരുത്തപ്പെടുന്നില്ലെന്നും അതിന് ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകില്ലെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു അതിനാൽ ഈ എക്കലോൺ രൂപത്തിലേക്ക് ചുരുക്കുന്നതിലൂടെ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് നിരീക്ഷിക്കുന്നു കാരണം അവസാന സമവാക്യത്തിൽ നിന്ന് നമുക്ക് 0 ലഭിക്കുന്നത് 6 ന് തുല്യമാണ് അതിനാൽ ഇത് നിരീക്ഷിക്കുന്നതിലൂടെ ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് ഒരു സൊലൂഷനുമില്ലെന്നും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിവറ്റുകളുടെ കാര്യത്തിൽ വലതുവശത്തെ കോളത്തിന് ഒരു പിവറ്റ് ഉണ്ടെന്നും കാരണം ഇപ്പോൾ ഇത് ഇവിടെ പിവറ്റാണ് ഇതാണ് പിവറ്റ് രണ്ടാമത്തെ റോ അല്ലെങ്കിൽ രണ്ടാമത്തെ നിരയിൽ മൂന്നാമത്തെ നിരയ്ക്ക് പിവറ്റ് ഇല്ല കാരണം ഇത് 0 ഘടകമായതിനാൽ ഇത് പിവറ്റ് ചെയ്യാൻ കഴിയില്ല പിവറ്റ് പൂജ്യമല്ലാത്ത ഒരു ഘടകമായിരിക്കണം എന്നാൽ ഇവിടെ ഈ നമ്പർ നോക്കുമ്പോൾ ഇത് ഒരു പിവറ്റ് ആണ് ഇടതുവശത്ത് ഉള്ളതെല്ലാം 0 ആണെന്നും അടിയിലേക്ക് പോകാൻ ഒന്നുമില്ലെന്നും ഇത് തൃപ്തിപ്പെടുത്തി അതിനാൽ നമ്മൾക്ക് ഇവിടെ ഈ വലതുവശത്തെ കോളത്തിന് ഒരു പിവറ്റ് ഉണ്ട് അതിനാൽ കൃത്യമായി പൊരുത്തക്കേടിന്റെ അവസ്ഥ ഇതാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിന് പരിഹാരമില്ല കാരണം ഈ വലതുവശത്തെ നിരയ്ക്ക് ഒരു പിവറ്റ് ഉണ്ട് ഇത് സംഭവിക്കരുത് പിവറ്റ് ഈ പ്രധാന മാട്രിക്സിൽ ഉണ്ടായിരിക്കണം ഈ വലതുവശത്തുള്ള കോളത്തിൽ അല്ല ഉണ്ടാകേണ്ടത് ഈ കോളം സിസ്റ്റത്തിലെ വലതുവശത്തെ b എന്ന വെക്റ്ററുമായി യോജിക്കുന്നു അതിനാൽ ഇത് ഒരു സൊലൂഷനും ഇല്ല എന്ന കേസ് ആണ് സമവാക്യങ്ങൾ ഇൻകോൺസിസ്റ്റന്റ് ആണ് അതിനാൽ സൊലൂഷൻ നിലവിലില്ല ഇപ്പോൾ മൂന്നാമത്തെ ഉദാഹരണത്തിലേക്ക് പോകും അത് വീണ്ടും ചെറുതായി മാറ്റിയിരിക്കുന്നു

ഇവിടെ ഈ എന്നിവ സമാന ഓപ്പറേഷനുകളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം സമവാക്യം നമ്പർ 2 സമവാക്യം നമ്പർ 3 എന്നിവയിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം അതിനാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഇത് ലഭിച്ചു വീണ്ടും വീണ്ടും അതേ പ്രവർത്തനം കാരണം ഈ സമവാക്യം ഞാൻ അർത്ഥമാക്കുന്നത് ഈ റോ 2 അല്ലെങ്കിൽ 3 ാം റോയിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ കുറയ്ക്കും അതായത് ഈ മെത്തേഡ്ൽ നമുക്ക് ഇവിടെ 0 0 0 ഉം ലഭിക്കും

അതിനാൽ ഇപ്പോൾ ഇത് മുമ്പത്തെ കേസിനെക്കാൾ വ്യത്യസ്തമാണ് 06 പോലെ ഒന്നും ലഭിക്കുന്നില്ല അവസാന സമവാക്യം നമ്മൾക്ക് ലഭിക്കുന്നത് പൂർണ്ണമായും 0 ആണ് അതിനാൽ 0 എന്നത് 0 ന് തുല്യമാണ് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ അവസാന കോളത്തിൽ നമ്മൾക്ക് പിവറ്റ് ഇല്ല കാരണം എന്താണ് നമ്മളുടെ പിവറ്റ് ഇത് ഒരു പിവറ്റ് ജലം എലെമെന്റാണ് ഞാൻ പറഞ്ഞതുപോലെ അവ വെക്റ്റർ മാട്രിക്സ് എന്നിവയുടെ നിരവധി ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അതിനാൽ ഇവിടെ പിവറ്റ് എല്ലാം 0 ആണ് ഇവിടെ ഒന്നും ശേഷിക്കുന്നില്ല ഇപ്പോൾ വലതുവശത്തേക്ക് വരുന്നു ഇത് പിവറ്റ് ആണ് ഇത് ഇവിടെ പിവറ്റ് അല്ല കാരണം ഇടതുവശത്ത് നിങ്ങൾക്ക് പൂജ്യമല്ലാത്ത ഒരു ഘടകമുണ്ട് അതിനാൽ പിവറ്റിനായി ഇടത്തോട്ടും താഴോട്ടും ഉള്ളതെല്ലാം 0 ആയിരിക്കണം അതിനാൽ നമുക്ക് ഇവിടെ ഈ പിവറ്റ് ഉണ്ട് ഈ ഘടകം പിവറ്റ് ആയി നമ്മൾ ഇപ്പോൾ കോളം നമ്പർ 3 അല്ലെങ്കിൽ റോ നമ്പർ 3 യിലേക്ക് പോകും നമ്മൾക്ക് ഇവിടെ ഒരു പിവറ്റും ഇല്ല അതിനാൽ പ്രശ്നമില്ല പക്ഷേ എന്നാൽ ഏറ്റവും അവസാനത്തെ വലതുവശത്തെ നിരയ്ക്കും ഒരു പിവറ്റ് ഇല്ല അതിനാൽ സിസ്റ്റം സ്ഥിരതയുള്ളതാണ് അതിനാൽ നമുക്ക് സൊലൂഷൻകൾ ഉണ്ടാകും ഈ സാഹചര്യത്തിൽ സമവാക്യങ്ങൾ സ്ഥിരതയുള്ളതാണെന്നും ഈ പിവറ്റുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ അൺനോണുകളുടെ എണ്ണത്തേക്കാൾ കുറവാണെന്നും നമ്മൾ കാണുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ രണ്ട് പിവറ്റുകളിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ കൂടാതെ മൂന്ന് അൺനോണുകളുണ്ടായിരുന്നു അതിനാൽ നമുക്ക് അനന്തമായ നിരവധി സൊലൂഷൻകൾ ഉള്ള സാഹചര്യമാണിത് കാരണം യൂനിക് സൊലൂഷൻകളുടെ കാര്യത്തിൽ പിവറ്റുകളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് അനന്തമായ നിരവധി സൊലൂഷൻകൾ ഉണ്ടാകും കൂടാതെ ഇത് പരിഹരിക്കുന്നതിന് വളരെ ആസൂത്രിതമായ ഒരു സമീപനവുമാണ് അനന്തമായ നിരവധി സൊലൂഷൻകളുടെ ഈ കേസ് ഉള്ളപ്പോൾ അതിനാൽ ഈ കോളത്തിന് ഒരു പിവറ്റ് ഉണ്ട് മൂന്നാമത്തെ കോളത്തിന് ഒരു പിവറ്റ് ഇല്ല ഞാൻ പറഞ്ഞതുപോലെ ഇത് ന് തുല്യമാണ് ഇത് ന് സമാനമാണ് ഇത് ന് സമാനമാണ് അതിനാൽ ഇവിടെ ക്ക് സമാനമായ മൂന്നാമത്തെ കോളത്തിന് ഒരു പിവറ്റ് ഇല്ല ഈ ഒരു ഫ്രീ വേരിയബിൾ ആണെന്ന് നമ്മൾ വിളിക്കുന്നു കാരണം ഈ ക്ക് അനുസരിച്ച് കോളത്തിന് ഒരു പിവറ്റ് ഇല്ല നമ്മൾ ഇതിനെ ഒരു ഫ്രീ വേരിയബിൾ പോലെ വിളിക്കുന്നു ഫ്രീ എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട വിധത്തിൽ എടുക്കാം എന്നാണ് അതിനാൽ അനന്തമായ നിരവധി സൊലൂഷൻകളുടെ ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന പോയിന്റ് ആണിത് ഇത് ഫ്രീ വേരിയബിൾ ആയതിനാൽ നമുക്ക് ആവശ്യമുള്ളതെന്തും തിരഞ്ഞെടുക്കാം അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അതിനാൽ ഇവിടെ പിവോട്ടുകളുടെ എണ്ണം അൺനോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് കാരണം രണ്ട് പിവറ്റുകളുണ്ട് കൂടാതെ മൂന്ന് അൺനോണുകളുമുണ്ട് കൂടാതെ ഫ്രീ വേരിയബിളുകളുടെ എണ്ണം കൃത്യമായി ഇടത് ആയിരിക്കും കാരണം ഇത് ഇവിടെ കൈവശപ്പെടുത്തിയിരിക്കുന്നതിനാൽ നമുക്ക് ന് പിവറ്റ് ഉണ്ട് പക്ഷേ ക്ക് ഒരു പിവറ്റ് ഇല്ല അതിനാൽ ഇത് ഫ്രീ വേരിയബിൾ ആണ് അതിനാൽ ഫ്രീ വേരിയബിളുകളുടെ എണ്ണം n r ആയിരിക്കും n എന്നത് ഇവിടെ ഈ പ്രധാന മാട്രിക്സ് A യിലെ കോളങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ അൺനോണുകളുടെ എണ്ണം ആണ് അതോടൊപ്പം ഈ n r എന്നതാണ് പിവറ്റുകളുടെ എണ്ണത്തിന് നമ്മൾ നൽകുന്ന പേര് അതിനാൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഈ രൂപത്തിൽ റെഡ്യൂസ് ചെയ്ത നമ്മുടെ സിസ്റ്റം ഉണ്ട് ഇവിടെ നെ ഫ്രീ വേരിയബിളായി അടയാളപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് നമുക്ക് ഈ എന്ന ഒരു യഥാർത്ഥ സംഖ്യയായി തിരഞ്ഞെടുക്കാം തുടർന്ന് നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ സമവാക്യം നമ്പർ 2 ൽ നിന്ന് നമുക്ക് ലഭിക്കും കാരണം ഇവയാണ് ഇപ്പോൾ ആശ്രിത വേരിയബിളുകൾ അതിനാൽ ഇത് ന്റെ സൊലൂഷൻ ആണ് ഇതിനെ നമ്മൾ നൾ സ്പേസ് എന്ന് വിളിക്കും ഇതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ ചർച്ചചെയ്യാം അത് കുറച്ച് സമയമെടുക്കും പക്ഷേ ഈ ന്റെ സൊലൂഷൻ വളരെ പ്രത്യേകമായ ഒരു ഘടനയാണ് ഒരിക്കൽ നമ്മൾ ഈ സൊലൂഷൻ ഇവിടെ എഴുതിക്കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് ഇവിടെ കാണാം ഒന്ന് ഈ ഇല്ലാതെ മറ്റൊന്ന് ഉള്ളത് ഈ ഭാഗം ഇവിടെ 2 11 ഇത് കൃത്യമായി നെ തൃപ്തിപ്പെടുത്തുന്നു ഇത് x0 നെ തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ ഇത് ടൈംസ് നെ തൃപ്തിപ്പെടുത്തുന്നു കാരണം ഒരു കോൺസ്റ്റന്റ് ആണ് x ഈ തൃപ്തിപ്പെടുത്തിയാൽ ഉം തൃപ്തിപ്പെടുത്തും ഇതാണ് യുടെ സൊലൂഷനുകൾ കാരണം ഓരോ ആൽഫയ്ക്കും ഇവിടെ ധാരാളം സൊലൂഷനുകൾ ഉണ്ട് ആൽഫ നിങ്ങൾ 1 എടുക്കുന്നു നിങ്ങൾ 2 എടുക്കുന്നു 1 5 എടുക്കുന്നു എന്തും അതിനാൽ ഇത് കൃത്യമായി യുടെ പരിഹാരമാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് വരും ഇതിനെ a യുടെ നൾ സ്പേസ് എന്ന് വിളിക്കുന്നു യുടെ എല്ലാ സൊലൂഷനുകളെയും ഒന്നിച്ച് നൾ സ്പേസ് എന്ന് വിളിക്കും ഇവിടെ ആൽഫയില്ലാത്ത സ്ഥിരമായ ഭാഗം എന്ന് നൽകിയ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേക സൊലൂഷൻ ആണ് അതിനാൽ സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തും അല്ലെങ്കിൽ ഏത് സംഖ്യയാലും ഗുണിച്ചാൽ ഇത് നമ്മുടെ തന്നിരിക്കുന്ന സിസ്റ്റത്തിന് അനുസരിച്ച് ഉള്ള ഹോമോജിനിയസ് സിസ്റ്റം എന്നു വിളിക്കുന്ന തൃപ്തിപ്പെടുത്തും ഹോമോജിനിയസ് എന്നാൽ അർത്ഥം നമ്മൾ വലതുവശത്ത് 0 ആയി സജ്ജമാക്കുക എന്നാണ് അതിനാൽ ഇത് വളരെ സവിശേഷമായ ഒരു ഘടനയാണ് പിന്നീട് നമ്മൾ കൂടുതൽ സംസാരിക്കും അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് x ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് എഴുതാൻ കഴിയും അതിനാൽ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഒരു പർട്ടിക്കുലർ അഥവാ പ്രത്യേക സൊലൂഷനും വലതുവശത്ത് 0 ആയി സജ്ജമാക്കുമ്പോൾ ഉള്ള ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊലൂഷനും കൂട്ടി ചേർക്കുന്നതാണ് ഇവിടെ സൊലൂഷൻ യഥാർത്ഥത്തിൽ ഹോമോജീനിയസ് ആയ ഒന്ന് ഉള്ളപ്പോൾ അതിനർത്ഥം വലതുവശത്ത് 0 ഉള്ളപ്പോൾ തൃപ്തികരമാണെന്ന് ഒരാൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും അതിനാൽ ഈ പാർട്ട് മൂന്ന് സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്തും കൂടാതെ ഏത് സംഖ്യയേയും നമുക്ക് ഇതിലേക്ക് ഗുണിക്കാം ഇത് ബാധിക്കില്ല കാരണം വലതുവശത്ത് 0 ആണ് അതിനാൽ ഈ ഭാഗം കൃത്യമായി ക്ക് അനുബന്ധമായുള്ള യുടെ സൊലൂഷൻ ആണ് ഇത് ഒരു പ്രത്യേക സൊലൂഷൻ ആണ് ഇത് എന്ന സമവാക്യത്തെ കൃത്യമായി തൃപ്തിപ്പെടുത്തുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങളുടെ അടുത്ത ലെക്ച്ചറിൽ തുടരും അതിനാൽ ഈ എലിമിനേഷൻ ടെക്നിക്കിന്റെ ഒരു അടിസ്ഥാന ആമുഖം നമ്മൾ കണ്ടു പ്രത്യേകിച്ചും വളരെ പ്രധാനം ഈ 3x3 സിസ്റ്റത്തിന് എങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഈ എക്കലോൺ ഫോം ആണ് കൂടാതെ ഈ എക്കലോൺ ഫോമിനെ അടിസ്ഥാനമാക്കി നമുക്ക് സൊല്യൂഷൻറെ കൺസിസ്റ്റൻസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസിയെക്കുറിച്ചോ സംസാരിക്കാം അതായത് യൂനിക് സൊല്യൂഷൻറെ കേസുകൾ അനന്തമായ നിരവധി സൊല്യൂഷൻകൾ എന്നിവ ഈ എക്കലോൺ ഫോമിന്റെ സഹായത്തോടെ ചർച്ചചെയ്യാം ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ ഞാൻ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് വളരെയധികം നന്ദി